ദുരിതമോചനത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാം സതീഷ് ടി റൂർക്കി യിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഇന്ന്ബിൽഡ് ബാക്ക് ബെറ്റർ പ്രാക്ടീസുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുന്നത് പ്രത്യേകിച്ച് എൽ സാൽവഡോറിലെ പുരോഗമന ഭവനങ്ങളുടെ കാര്യം മൈക്കൽ ലിയോൺസും തിയോ ഷിൽഡർമാനും കാമിലോ ബോണോയും എഡിറ്റ് ചെയ്ത ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന ആശയം സമാഹരിച്ച സുപ്രധാന അധ്യായങ്ങളിലൊന്നാണിത് അതിന്റെ പരിശീലന വശം ആണ്പരിശീലനത്തിൽ നിന്നുള്ള എല്ലാ പാഠങ്ങളും അവർ എങ്ങനെ കൊണ്ടുവന്നു കോൺസെപ്സിയോൺ ഹെറെറോസ് തോമസ് മാതഎന്നിവരോടൊപ്പം കാർമെൻ ഫെറർ കാൽവോആണ് ഇത് എഡിറ്റ് ചെയ്തത് അതിനാൽ ഇതൊരു അധ്യായമാണ് 2001 ലെ എൽ സാൽവഡോറിലെഭൂകമ്പത്തിന് ശേഷം എങ്ങനെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അവ നടപ്പിലാക്കിയ പ്രക്രിയകൾ എന്തൊക്കെയാണ് അതിൽ നിന്നും നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റു രീതികൾ എങ്ങനെ അറിയിച്ചു എന്തുചെയ്യണം എന്തുചെയ്യരുത് എന്നുംകമ്മ്യൂണിറ്റിപങ്കാളിത്തം എങ്ങനെ വളരെ പ്രസക്തമാണ് എന്നതിനെ കുറിച്ചും നമുക്ക് ചില മാർഗനിർദേശങ്ങൾ നൽകുന്നു പാർട്ടിസിപേഷന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഓരോ ഓർഗനൈസേഷനുകളുടെയും റോളുകൾ എന്തൊക്കെയാണ് കൂടാതെ അവിടെ പാർട്ണർഷിപ് അതിന്റെ കോർഡിനേഷനും സൂപ്പർവിഷനും ഉണ്ടാവും അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പ്രോജക്റ്റിന്റെ മാനേജ്മെന്റിൽഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളിൽ പലരുംപ്രത്യേകിച്ച് ഏഷ്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള നിങ്ങളിൽ പലരും എൽ സാൽവഡോറിനെകുറിച്ച് കേട്ടിട്ടുണ്ടാകില്ല മധ്യ അമേരിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യം ആണ് ഇത് എൽ സാൽവഡോറിലെ 48 ആളുകളും ദാരിദ്ര്യത്തിലോ കടുത്ത ദാരിദ്ര്യത്തിലോ ആണ് ജീവിക്കുന്നത് നിങ്ങൾ വടക്കേ അമേരിക്കയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എൽ സാൽവഡോർവരുന്നത് ഇവിടെയാണ് അമേരിക്കയും വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വളരെ വൈവിധ്യപൂർണ്ണമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വടക്കേ അമേരിക്കയിൽ തന്നെ വളരെ വലിയ വൈവിധ്യം നിലനിൽക്കുന്നു വലിയ വെല്ലുവിളികൾ നിലനിൽക്കുന്നു വടക്കേ അമേരിക്കൻ മേഖലയിലും തെക്കേ അമേരിക്കയിലും ഏറ്റവും സമ്പന്നമായ ഖനന മേഖലയും സമ്പന്നമായ പ്രകൃതി സൌന്ദര്യവും ഉണ്ടെങ്കിലും അവയും വിവിധ വെല്ലുവിളികളാൽ അസമമായി വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് തെക്കേ അമേരിക്കയിൽ വളരെ സാധാരണമാണ് ഭൂകമ്പങ്ങൾ മറ്റേ ക്ലാസുകളിൽ പെറുവിന്റെ കാര്യത്തിൽ നടന്നതും അത് എങ്ങനെ കൈകാര്യം ചെയ്തുഎന്നും നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ എൽ സാൽവഡോറിനെകുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു 2001 ലെ ഈ പ്രത്യേക ദുരന്തം 200000 ലധികം വീടുകളെ നശിപ്പിച്ചു ഇതിനകം തന്നെ നിലവിലുള്ള ഭവനക്ഷാമത്തിന്റെ ദുർബലമായ വശം അവിടെ ഉണ്ട് അതിന്റെ കൂടെ ഭൂകമ്പ ദുരന്തം അത് കൂടുതലാക്കി അതിനാൽ എന്താണ് ഈ നിലവിലുള്ള കുറവുകൾ നിലവിലുള്ള പരാധീനതകൾ 78 മുതൽ 92 വരെ 125000 ത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയ വളരെ ക്രൂരമായ ഒരു ആഭ്യന്തരയുദ്ധമുണ്ടായിരുന്നു നിങ്ങൾ ഒരു ആഭ്യന്തരയുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സമ്പദ്വ്യവസ്ഥയെയും പ്രധാന അടിസ്ഥാന സൌകര്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നും കൂടി നോക്കണം 1986 ൽ വീണ്ടും ശക്തമായ ഭൂകമ്പം സാൻ സാൽവഡോറിൽഉണ്ടായി 2001 നും 1998 നും മുമ്പ് നാൽപതിനായിരത്തിലധികം വീടുകൾ നശിപ്പിക്കപ്പെട്ടു ഈ മിച്ച് ചുഴലിക്കാറ്റ്250 പേരുടെ മരണത്തിനിടയാക്കിയ ഗുരുതരമായ വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും സംഘർഷാനന്തര പുനരൈക്യ പ്രക്രിയയുടെ ഏറ്റവും വിജയകരമായ അനുഭവങ്ങളെ ബാധിക്കുകയും ചെയ്തു 2001 ൽ വീണ്ടും ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി 30 ദിവസം അതിന്റെ ആഘാതം ഉണ്ടായി 6 6 പോയിന്റ് റിക്ടർ സ്കെയിലിൽ ആണ് ഈ ഭൂകമ്പം ഉണ്ടായത് ദേശീയ ഭൂപ്രദേശത്തിന്റെ 85 ഉം ആഘാതം നേരിട്ടു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മലയോര പ്രദേശങ്ങൾ അഥവാ പർവതപ്രദേശങ്ങൾ ആയത് കൊണ്ട് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം മണ്ണിടിച്ചിലുകളും ഉണ്ടായതായി നിങ്ങൾക്ക് കാണാം ഭൂകമ്പങ്ങൾ മാത്രമല്ല ഭൂമി വെറുതെ നീങ്ങുന്നില്ല മറുവശത്ത് കുന്നുകളിൽ മണ്ണിടിച്ചിലുണ്ട്ചുഴലിക്കാറ്റുകൾ വീണ്ടും ഉണ്ടായി എൽ സാൽവഡോറിന്റെ ഭൂമിശാസ്ത്രത്തിൽ നിലനിന്നിരുന്ന അപകടകരമായ പ്രതിഭാസമാണ് ഇത് ഭൂകമ്പത്തിന് ശേഷം മറ്റൊന്ന് തീർച്ചയായും ഉണ്ടാവും നിരവധി എൻജിഒകൾ ചിത്രത്തിൽ വരുന്നു സഹായം പിന്തുണ സാങ്കേതിക വൈദഗ്ധ്യംസാമ്പത്തിക പിന്തുണ എന്നിവ നൽകാൻ അവർ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് സാൽവഡോറൻ റെഡ് ക്രോസിനൊപ്പംസ്പാനിഷ് റെഡ് ക്രോസ് പോലെയുള്ള വ്യത്യസ്ത റെഡ് ക്രോസ് അസോസിയേഷനുകൾഒന്നിച്ചു പ്രവർത്തിച്ചത് റെഡ് ക്രോസ് അസോസിയേഷനുകളിൽഅവർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അവർ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ കഴിയുംഅതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ ഇതിനകം പഠിച്ച സമ്പ്രദായങ്ങൾ അങ്ങനെയാണ് അവർ ഒത്തുചേർന്നത് ഒരു കോർ ഹൌസിംഗ് കൺസെപ്റ്റ് എന്നതിലുപരി ഒരു പ്രോഗ്രസീവ് ഹൌസിംഗ് കൺസെപ്റ്റ് എന്നത് ഒരു പരിഹാരമായി അവർ കൊണ്ടുവന്നു എന്തെന്നാൽ അവർ പഠിച്ചത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അവിടെയാണ് അവർ പുരോഗമനപരമായ പരിഹാരങ്ങൾ കൊണ്ടുവന്നത് ഒന്ന് എന്താണ് പുരോഗമന സമീപനം ഇവയാണ് വിവിധ ഘട്ടങ്ങളിൽ ആയി ഇന്ക്രിമെന്റൽ വേ യിൽ വികസിപ്പിച്ചെടുത്ത വീടുകൾ ശരിയാണ് പുരോഗമന ഭവനത്തിനെതിരായി നിരവധി ആളുകൾക്ക് ഒരു കോർ ഹൌസ് സമീപനം ലഭിക്കുന്നു ഒരു കോർ ഹൌസ് സമീപനത്തിൽ ഒരു കോർ ഡ്വെല്ലിംഗ് യൂണിറ്റ് നൽകുന്നു തുടർന്ന് ആളുകളെ അതിൽ ചേർക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ ഒരു തരത്തിൽ വലുതാക്കാൻ അവർ ശ്രമിക്കുന്നു ചില അടിസ്ഥാന കാര്യങ്ങൾ നൽകുന്നു തുടർന്ന് ആളുകൾ അതിന്റെ കൂടെ ചേർക്കുന്നു പ്രിറ്റ്സ്കർ അവാർഡ് നേടിയ അലജാൻഡ്രോയുടെ Alejandroസൃഷ്ടികൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ചിലി യിൽ കാണാൻ കഴിയും ഇത് എന്താണ് നൽകിയത് ആളുകൾ എന്താണ് വർദ്ധിപ്പിച്ചത് ഈ സ്ഥലങ്ങൾ എങ്ങനെ പരിഷ്കരിച്ചു എന്നാൽ ഇവിടെ ഒരാൾ മനസ്സിലാക്കണം വർദ്ധനവ് എന്നാൽ ഏകദേശം 100 ശതമാനം വർദ്ധനവ് പോലെയാണ് പക്ഷേ ഇത് സാധ്യമായാലും അല്ലാത്തതായാലും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്അതേസമയം പുരോഗമനപരമായ സമീപനത്തിൽ കോർ ഡ്വെല്ലിംഗ് പോലെയല്ല ഇത് ഒരു വീടിനെ വലുതാക്കുന്നില്ല മറിച്ച് ഒരു വീട് പൂർത്തിയാക്കുകയാണ് പൂർണ്ണമായ രീതിയിൽ പുരോഗമന സമീപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് അതാണ് കൂടാതെ 2001 ൽ ആദ്യത്തെ ഭൂകമ്പം ഉണ്ടായപ്പോൾ സ്പാനിഷ് റെഡ് ക്രോസ് എൽ സാൽവഡോറിൽ ഭൂകമ്പങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കി അതിൽ സാൽവഡോറിയൻ റെഡ് ക്രോസിന്റെ പ്രവർത്തന പദ്ധതിക്ക് അനുസൃതമായി PETES ഉണ്ട് അതിൽ മൂന്ന് ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു ഒന്ന് അടിയന്തര ഘട്ടം സ്റ്റബിലൈസേഷൻ റീഹാബിലിറ്റേഷൻ മാനുഷിക സഹായവും റിക്കവറി യും പുനർനിർമ്മാവും ആണ് അവസാനത്തെ ഘട്ടം അതിനാൽ അടിയന്തര ഘട്ടത്തിൽ ഭൂകമ്പത്തിനും മണ്ണിടിച്ചിലിനും ശേഷം തിരച്ചിൽ രക്ഷാപ്രവർത്തനം പ്രഥമശുശ്രൂഷകൾ എന്നിവയിലൂടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ ആരോഗ്യം ഒഴിപ്പിക്കൽ തിരച്ചിൽ എന്നിവ നൽകൽ ഭക്ഷണം പാർപ്പിടം അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിങ്ങനെയുള്ള ദുരിതാശ്വാസ വിതരണത്തിനായി ചില കുടുംബങ്ങളുടെ ഒത്തുചേരൽ എന്നിവയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ശുചിത്വ സാഹചര്യങ്ങൾ നിയന്ത്രണങ്ങൾ എൻഡെമിക് എപിഡെമിക് ഇവയൊക്കെയാണ് അടിയന്തിര ഘട്ടത്തിൽ മുഴുവനായി ഉൾപ്പെട്ടിരിക്കുന്നത് ഒരിക്കൽ ആളുകൾ ക്രമേണ മാനുഷിക ഘട്ടത്തെ സ്ഥിരപ്പെടുത്തുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്താൽ ഇവിടെയാണ് കുടിയൊഴിപ്പിക്കപ്പെട്ട ജനസംഖ്യയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പാർപ്പിടം വെള്ളം ശുചിത്വം ഉപജീവനമാർഗം മാനസികാരോഗ്യത്തിനുള്ള മനഃശാസ്ത്രപരമായ പിന്തുണ എന്നിവ നിറവേറ്റുന്നതിനുള്ള ആഗോള തന്ത്രങ്ങൾ ഉള്ളത് റിക്കവറിയുടെയും പുനർനിർമ്മാണത്തിന്റെയും ഘട്ടത്തിൽ ഇത് മുൻ ഘട്ടത്തിന്റെ ഒരു തുടർച്ചയാണ് ഈ ഘട്ടം അടിസ്ഥാന സൌകര്യങ്ങളുടെ വീടുകൾ പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രോജക്റ്റുകളുടെ തിരിച്ചറിയലും നിർവചനവുമാണ് അതുപോലെ തന്നെ സമൂഹത്തിനും സാമ്പത്തിക വികസനത്തിനും വേണ്ടിയുള്ള പദ്ധതികളുടെയും ഇപ്പോൾ അവർ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഒന്ന് വിവിധ ഇടപെടൽ തന്ത്രങ്ങൾ ആണ് ഈ റെഡ് ക്രോസ് അസോസിയേഷനുകളുടെ പങ്കാളിത്തം എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നുഅവർക്ക് 2 ഓപ്ഷനുകൾഉണ്ടായിരുന്നു കോൺട്രാക്ടർ ബിൽട് സമീപനം അനുസരിച് പുനരധിവാസത്തിനുംപ്രോഗ്രസ്സീവ് ഹൌസിങ് സമീപനം അനുസരിച് പുനർനിർമ്മാണത്തിനും അവർ എങ്ങനെ ഒരുമിച്ചു ചേരുന്നു എങ്ങനെ പ്രോഗ്രസ്സീവ് സമീപനത്തിൽ അത് ഉണ്ടാക്കുന്നു പുനർനിർമ്മാണ പ്രക്രിയയിൽ അവർ നൽകിയ പ്രധാന ആസ്പെക്റ്റിൽ ഒന്ന് പാർട്ടിസിപ്പേറ്ററി ആസ്പെക്ട് ആണ് പിന്നെ കമ്മ്യൂണിറ്റി അതൊരു തുടർച്ചയായ പ്രക്രിയയായിരിക്കണം അവർ പഠിച്ച പ്രധാന പാഠം നിങ്ങൾ നൽകിയിട്ട് പോവുക എന്നതല്ല അത് ഒരു നിരന്തര പരിശ്രമമായിരിക്കണം ഒരാൾക്ക് എങ്ങനെ അവരുടെ കഴിവുകൾ ഉയർത്താനും അത് തുടർച്ചയായി കൊണ്ട്പോവാനും കഴിയും പരിസ്ഥിതി സംരക്ഷണവും സാംസ്കാരിക ഘടകങ്ങളോടുള്ള സെൻസിറ്റിവിറ്റി യും ഉണ്ടാവണം ഇത് ഈ പ്രോഗ്രസ്സീവ് സമീപനം മാത്രമല്ല വാസസ്ഥലത്തിന്റെ നിർമ്മാണത്തിൽ മാത്രം ഇത് അവസാനിച്ചില്ല എന്നാൽ യഥാർത്ഥ ഡിസൈൻ വിഭാവനം ചെയ്യപ്പെട്ടു അതിനാൽ ഉപയോക്താക്കൾക്ക് അവരുടെ റിസോർസസും ആവശ്യങ്ങളും അനുസരിച്ച് അത് വിപുലീകരിക്കാനും മെച്ചപ്പെടുത്താനും കഴിയും അതിനാൽ റിസോർസസിൽ സ്വന്തം സാധ്യതകൾ ഉപയോഗിച്ച് അവർക്ക് എങ്ങനെ വിപുലീകരിക്കാൻ കഴിയും ഈ പ്രോഗ്രസ്സീവ് ഹൌസിങ് സമീപനത്തിന് പൊതുവായ ചില മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളുണ്ട് ഭൂകമ്പത്തിന് മുമ്പ് അവർ നിലനിന്ന അതേ ഭൂമിയിലാണ് വീടുകൾ നിർമ്മിച്ചത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കാരണം ഒന്നാമതായി ഇത് നൽകിയാൽ അവിടെ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയില്ലെന്ന് അവർക്ക് ഉറപ്പാവണം അതിനാൽ സാധ്യമായ ഏറ്റവും അടുത്തുള്ള സ്ഥലം ഏത് സ്ഥലത്തായാലും അതേ ഭൂമിയിലോ അല്ലെങ്കിൽ അതിന്റെ സമീപത്തെങ്കിലും നിർമ്മിക്കേണ്ടതുണ്ടെന്ന് അവർ ഉറപ്പാക്കണം കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു കാരണം ഈ ആസ്പെക്റ്റിൽ പ്രധാന ആസ്പെക്ട്നമ്മൾ ഗുജറാത്ത് റിക്കവറി യേ കുറിച്ചും കത്തോലിക്കാ റിലീഫ് സേവനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത പോലെ അവരുടെ സ്വന്തം ഭൂമിയിൽ അവർ എങ്ങനെ വീട് കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കണം അതിനാൽ ഒന്നാമതായി ഉടമസ്ഥാവകാശം നിലനിർത്തണം ഭൂകമ്പ പ്രതിരോധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇത് ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന ഒരു കെട്ടിടമാണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം എന്നതാണ് കൂടാതെ തകരാതെ ഭൂകമ്പത്തെ നേരിടാൻ ഇതിന് കഴിയും അതിനാൽ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നില്ലെന്നും ഉൽപ്പാദിപ്പിക്കുന്ന കേടുപാടുകൾ ഉപയോക്താവ് തന്നെ പരിഹരിക്കുമെന്നും ഇത് ഉറപ്പാക്കേണ്ടതുണ്ട് ചുരുങ്ങിയ ഇടപെടലുകളാൽ ഇത് നന്നാക്കാനുംആളുകൾക്ക് തന്നെ അത് എത്രയും വേഗം നന്നാക്കാനും കഴിയും ഓരോ വീടിനും ഏകദേശം 42 സ്ക്വയർ മീറ്റർ വിസ്തീർണ്ണം ഉണ്ടായിരുന്നു അതിൽ 36 മേൽക്കൂരയായിരിക്കും 6 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള പൂമുഖം പുറത്തുള്ള 3 മുറികളായി തിരിച്ചിരിക്കുന്നു കമ്മ്യൂണിറ്റികൾ ഈ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പാർട്ടിസിപ്പേറ്ററി സമീപനം ആണ് ഇത് നടപ്പിലാക്കിയത് എന്തായാലും കമ്മ്യൂണിറ്റി എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നും അത് എങ്ങനെ ബിൽറ്റ് ഫോം പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യും വീടിന്റെ ഡിസൈൻ മുതൽ വീടിന്റെ പൂർത്തീകരണം വരെയുള്ള മുഴുവൻ പ്രക്രിയയിലും കമ്മ്യൂണിറ്റി യുടെ ഇടപെടൽ അത്യാവശ്യമാണ് അതിനാൽ 3 ഘട്ടങ്ങളുണ്ട് ഒന്ന് ആദ്യ ഘട്ടമാണ്സ്ട്രക്ച്ചറൽ എലമെന്റുകളുടെ അടിസ്ഥാന നിർമ്മാണം അതായത് ഫൌണ്ടേഷനുകൾ കോളങ്ങൾ സ്ട്രക്ച്ചർ അതിന്റെ അടിസ്ഥാന ഘടന തുടങ്ങിയ സ്ട്രക്ക്ച്ചറൽ എലമെന്റുകൾ തുടർന്ന് കമ്മ്യൂണിറ്റിയിലെ ഓരോ കുടുംബത്തിലെയും ഈ വ്യക്തികൾ അൺ സ്കിൽഡ് തൊഴിലാളികളെ സംഭാവന ചെയ്തു അത് തോഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഈ നിമിഷത്തിൽ സ്വന്തം വീടുണ്ടാക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള അണ് സ്കിൽഡ് തൊഴിലാളികളെ നൽകാൻ കമ്മ്യൂണിറ്റി മുന്നിട്ടിറങ്ങുന്നു അവിടെ അവർക്ക് സ്വന്തമായി വീടുണ്ടാക്കുന്നതിൽ അഭിമാനമുണ്ട് രണ്ടാം ഘട്ടത്തിൽ ചില മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്ന റെഡ് ക്രോസ്സ് പോലുള്ള അസോസിയേഷനുകളുണ്ട് ഉദാഹരണത്തിന് ഹോളോ കോൺക്രീറ്റ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ പ്രാദേശികമായി ലഭ്യമല്ലാത്ത മറ്റെന്തെങ്കിലും കൂടാതെ ഇലക്ട്രിക്ക് ലോക്കൽ ടെക്നിക്കൽ ടീമുകൾ മുഖേന ആവശ്യമായ സാങ്കേതിക ഉപദേശം നൽകുകയും ചെയ്തു അതിനാൽ സൈറ്റ് സൂപ്പർവൈസർമാരും വീണ്ടും മെറ്റീരിയലുകളും പ്രാദേശികമായി ലഭ്യമല്ലാത്ത മെറ്റീരിയലുകൾ റെഡ് ക്രോസ് എങ്ങനെ നൽകി ഇനി മൂന്നാം ഘട്ടത്തിൽപോർട്ടബിൾ ജലവിതരണവും ഗാർഹിക പ്ലംബിംഗ് സംവിധാനങ്ങളും ഉള്ള പൂർത്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുസർവീസ് മെക്കാനിസം അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ മുഴുവൻ പ്രക്രിയയും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനെ എങ്ങനെ സമീപിക്കുന്നു അവർ സാമൂഹിക സംഘടനകൾ കമ്മ്യൂണിറ്റികൾ പ്രാദേശിക കമ്മ്യൂണിറ്റികൾ എന്നിവയിലൂടെ അവരുടെ സ്വന്തം നെറ്റ്വർക്കുകൾ വഴി സമീപിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു കാരണം റെഡ് ക്രോസ് ഉദ്യോഗസ്ഥർ മറ്റെവിടെയെങ്കിലും നിന്ന് വരുന്നതാണ് അവർക്ക് പ്രാദേശിക കമ്മ്യൂണിറ്റികളുമായി പരിചയം ഉണ്ടാവണം എന്നില്ല അവിടെയാണ് ഒരുതരം കമ്മ്യൂണിറ്റി സംഘടനയായ അഡെസ്കോ വരുന്നത് പ്രാദേശിക കമ്മ്യൂണിറ്റികളും ഇവിടെ വരുന്നതും പ്രവർത്തിക്കുന്നതുമായ വിവിധ എൻജിഒകൾ തമ്മിലുള്ള ഒരു തരം ഇന്റർഫേസ് ഉണ്ടാവുക ആ പ്രക്രിയയിൽ കമ്മ്യൂണിറ്റികൾ ഈ ഏജൻസികളിൽ ഒരു ട്രസ്റ്റ് സ്ഥാപിക്കുക എന്നതാണ് സംഭവിക്കുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ചർച്ച നടത്താനും ഒരു ഇന്റർഫേസ് സൃഷ്ടിക്കാനും കഴിയും അവസാനമായി സാൻ വിസെന്റിലെ 14 കമ്മ്യൂണിറ്റികളുടെ സമഗ്രമായ വിശകലനത്തിന് ശേഷം പുനർനിർമ്മാണ പ്രക്രിയയ്ക്കായി അവർ ആ 14 ലിൽ നിന്ന് 9 കമ്മ്യൂണിറ്റികളെതിരഞ്ഞെടുത്തുഈ പുരോഗമന ഭവന പദ്ധതിക്ക് വേണ്ടി പ്രധാനമായും അവർ രണ്ട് പ്രധാന മുനിസിപ്പാലിറ്റികളിൽ ഉൾപ്പെടുന്നു ഒന്ന് സാൻ വിസെന്റെഡിപ്പാർട്ട്മെന്റിനുള്ളിലെ ടെക്കോളൂക്കയും വെരാപാസും ഓരോ കമ്മ്യൂണിറ്റിയിലും എൽ ആർക്കോ ലാനോ ഗ്രാൻഡെ എൽ പ്യൂന്റെ സാന്താക്രൂസ് ഡി പാറൈസോ സാൻ പെഡ്രോ സാൻഡ് ജോസ് ഡി ബോർജാസ് നൂവോ ഓറിയന്റെ സാൻ അന്റോണിയോ ജിബോഅ San Isidroസാൻ ഇസിഡ്രോ അങ്ങനെ ഇവയെല്ലാം ഏകദേശം 582 വീടുകൾ കൺക്ലൂഡ് ചെയ്യുന്നു ഇപ്പോൾ ഭൂവുടമസ്ഥതയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇതിനകം ഭൂമിയുടെ നിയമപരമായ ഉടമകളോ ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ ഉള്ളവരോ ആയ ആളുകൾ ഈ പ്രത്യേക കമ്മ്യൂണിറ്റികളെ പ്രോസസ്സ് ചെയ്യുകയും ഈ കമ്മ്യൂണിറ്റികൾക്ക് ടൌൺ ഹാളിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്തു വക്കീലിന്റെ പ്രൊഫഷണൽ സേവനം ലഭ്യമാക്കി ഇത് പ്രക്രിയയുടെ ചിലവ് കുറച്ചു അതിനാൽ ഒരിക്കൽ അവർക്ക് നിയമവിധേയമായ ഒരു പ്രമാണം ഉണ്ടെങ്കിൽ അതിനെ നിയമവിധേയമായ പ്രോസസ്സ് ചെയ്യാം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രക്രിയയിലേക്ക് കൊണ്ടുവന്നു അതുവഴി കുറച്ച് ചിലവ് കുറയ്ക്കാനാകും പക്ഷേ റയിൽവേ കമ്പനി യുടെ ഉടമസ്ഥയിൽ ഉള്ള ലാൻഡിൽ വീടുകൾ ഉള്ള ചില ഫാമിലികൾ അവിടെയുണ്ട് കാരണം നിങ്ങൾക്ക് റവന്യൂ ലാൻഡ് ഉണ്ട് നിങ്ങൾക്ക് റെയിൽവേ ലാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് മൈനിംഗ് അതോറിറ്റിയുടെ mining authoritys ലാൻഡ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാംപക്ഷെ ഈ കേസിൽ റെയിൽവേ ഭൂമിയിൽ താമസിക്കുന്നവരാണ് അതിനാൽ ഉടമസ്ഥതയുടെ കാരണങ്ങളാൽ ഈ ആളുകളെ പ്രോജക്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അതിനാൽ ഇത് പരിഗണിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷേ അത് വ്യക്തമായി നോക്കേണ്ടതുണ്ട് ഇവയ്ക്ക് എന്ത് സംഭവിക്കും അവർ എന്ത് തരത്തിലുള്ള എൻജിഒ പിന്തുണയാണ് നൽകുന്നത് കാരണം ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡത്തിൽ അടിസ്ഥാന കൈവശാവകാശം വലിയ വ്യത്യാസം വരുത്തുന്നു കൂടാതെ ഇത് എങ്ങനെ നടപ്പിലാക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് പോലെ ഇത് ഒരു പാർട്ടിസിപ്പേറ്ററി ഡിസൈൻ മെത്തോഡോളജി ആണ് സമൂഹങ്ങൾ കൂട്ടായി ഒരു വീടിന്റെ ഡിസൈൻ തയ്യാറാക്കുന്നു അതിനാൽ ഒരു തിങ്ക് ടാങ്ക് പ്രക്രിയ താഴത്തെ ലെവലിൽ ഉള്ള ഇടപെടലുകളിലേക്ക് പോയി അവർ ചെയ്തത് റിയൽ സ്കെയിൽ ധാരണ നേടുക എന്നതാണ് രണ്ട് വരി ബ്ലോക്കുകൾ ഉപയോഗിച്ച് അവർ ഔട്ട്ലൈനുകൾ ഉണ്ടാക്കി ഇതാണ് നിങ്ങളുടെ ഇടംഇതാണ് നിങ്ങളുടെ മുറി ഇതാണ് വരാന്ത ഇത് മറ്റൊരു മുറി അതിനാൽ അടിസ്ഥാനപരമായി ബ്ലോക്കിന്റെ ഈ രണ്ട് വരികൾ നിലനിർത്തിക്കൊണ്ട് അവർ ഒരു മാർക്ക് ഔട്ട് പ്ലാൻ ഉണ്ടാക്കി അതിലൂടെ അവർക്ക് 11 സ്കേലിൽ സ്പേസിന്റെ യഥാർത്ഥ ധാരണ ലഭിക്കും പിന്നെ വീടിന് ഗേബിൾഡ് മേൽക്കൂരയും ഹൊറിസോണ്ടൽ ആയും വെർട്ടിക്കൽ ആയും ഉറപ്പിച്ച കോൺക്രീറ്റ് ഹോള്ളോ ബ്ലോക്കുകളാൽ നിർമ്മിച്ച ഭിത്തികളുള്ള ഒരു യൂണിറ്റ് അടങ്ങിയിരിക്കുന്നു അതിനാൽ ഹൊറിസോണ്ടൽ ആയും വെർട്ടിക്കൽആയുംനമ്മൾ ഭൂകമ്പ സിസ്മിക് കോഴ്സുമായിറഫർ ചെയ്യേണ്ടിവരുമ്പോൾ വെർട്ടിക്കൽ ബലപ്പെടുത്തലും അതുപോലെ ഹൊറിസോണ്ടൽ ബാൻഡുകളും ഉണ്ടായിരിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു സിൽ ബാൻഡ് ലിന്റൽ ബാൻഡ് റൂഫ് ബാൻഡ്പ്ലിൻത്ത് ബീം ഡയഗണൽ ബ്രേസിംഗ് തുടങ്ങിയ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ അറിയിക്കുന്നത് പോലെ മൊത്തം തറ വിസ്തീർണ്ണം ഏകദേശം 42 സ്ക്വയർ മീറ്ററാണ്9 സ്ക്വയർ മീറ്റർ വീതമുള്ള 2 കിടപ്പുമുറികൾ 18 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു കോമൺ ഏരിയ6 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള പൂമുഖം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു അതിനാൽ 3 ഘട്ടങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തപോലെ ഘട്ടം ഒന്ന് ഭാഗിക നിർമ്മാണമാണ്ഇവിടെകമ്മ്യൂണിറ്റികൾ ആണ് സ്റ്റേക്ക്ഹോൾഡറുകൾ കമ്മ്യൂണിറ്റികൾ ഈ പ്രക്രിയയിൽ ഇൻഫോർമൽ അൺ സ്കിൽഡ് തൊഴിലാളികളെയും പ്രാദേശിക ബിൽഡർമാരെയും നൽകി കാരണം പ്രാദേശിക ബിൽഡർമാരിൽ ചിലരെ കരാറുകാരും കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർമാരും ചേർന്ന് 30 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പിനും വാടകയ്ക്കെടുത്തതിനാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും അവിടെ വേറെ ഒന്നുണ്ട്സോഷ്യൽ പ്രൊമോട്ടർ ആണ് അത് അദ്ദേഹം മുഴുവൻ കമ്മ്യൂണിറ്റി തലത്തിലും ശ്രദ്ധിക്കുന്നു കൂടാതെ 50 മുതൽ 70 വരെ കുടുംബങ്ങൾക്ക് സോഷ്യൽ പ്രൊമോട്ടർമാരിൽ ഒരാളെ നിയമിച്ചു അതുവഴി വ്യക്തമായ സുതാര്യതയുണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു കൂട്ടം കുടുംബങ്ങളിലേക്കുള്ള ആശയവിനിമയത്തിന്റെ വ്യക്തമായ ഫ്ലോ പാറ്റേണുണ്ട് കൂടാതെ വിവിധ ചെറിയ കമ്മ്യൂണിറ്റികളിലുടനീളവും അതിനാൽ അവർ ചെയ്തത് പ്രാരംഭ ഘട്ടത്തിൽ അവർ കോഴ്സ് അനുസരിച്ച് ഖനനവും അടിത്തറയിടലും നടത്തി ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന ഘടന നിർമ്മിച്ചു കിടപ്പുമുറികളിൽ 1 7 മീറ്ററും മറ്റുള്ളവയിൽ 1 1 മീറ്ററും സിൽ ലെവലിൽ ചുമരുകൾ പണിഞ്ഞു മേൽക്കൂര നിർമ്മിക്കുകയും മൂടുകയും ചെയ്തു അതിനാൽ ഇത് ഒരു ഘട്ടമാണ് ഇവിടെ നിങ്ങൾക്ക് വെർട്ടിക്കൽ ബലപ്പെടുത്തൽ കാണാൻ കഴിയുംബേസിക് സ്ട്രക്ച്ചറിൽ ചെറിയ മേൽക്കൂരയും മതിലുകളുമുള്ള പകുതി പൂർത്തിയായ പ്രോഡക്റ്റുമായി ഒന്നാം ഘട്ടം പൂർത്തിയായി ജനലുകളോ വാതിലുകളോ ഒന്നുമില്ല തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ ഇവിടെയാണ് ഉടമകൾ അത് പൂർത്തീകരിക്കുന്നത് കമ്മ്യൂണിറ്റികളും നൽകി ആദ്യ ഘട്ടത്തിൽ ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പ്രാദേശികമായി ലഭ്യമല്ലാത്തതിനാൽ മെറ്റീരിയലുകൾ നൽകിയിരുന്നു അതിനാൽ ഏജൻസികൾ കോൺക്രീറ്റ് ബ്ലോക്കുകൾ നൽകി പക്ഷെ ഇവിടെ കമ്മ്യൂണിറ്റികൾ ലഭ്യമായ വിഭവങ്ങൾ അനുസരിച്ച് അവരുടെ സാധ്യതകൾ അനുസരിച്ച് അവർ വികസിപ്പിച്ചെടുത്ത വാതിലുകളും ജനലുകളും കൊണ്ടുവന്നു ഇവിടെ സോഷ്യൽ പ്രൊമോട്ടർമാർക്ക് പുറമെ മാസ്റ്റർ ബിൽഡർമാർ ഇഷ്ടികപ്പണിക്കാർ എന്നിവർ കമ്മ്യൂണിറ്റികൾക്കായി പരിശീലനം നൽകിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്കറിയാമോ അടിസ്ഥാന നിർമ്മാണ സാങ്കേതിക വിദ്യകൾ അവർ മനസ്സിലാക്കുന്നു കാരണം അത് നാളെ അവരെ സഹായിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് സ്വയം ചെയ്യാൻ കഴിയും കൂടാതെ വാതിലുകളുടെയും ജനലുകളുടെയും ചുവരുകളുടെയും ലിന്റെലുകളുടെ എല്ലാം പ്ലാസ്റ്ററിംഗും വാട്ടർപ്രൂഫിംഗ് ഭാഗവും പൂർത്തിയാക്കി പുറത്തെ ഭിത്തികളിൽ റഫ് കോട്ടിങ് കൊടുത്തുവീടുമുഴുവൻ ഫിനിഷിംഗ് ടച്ച് ചെയ്തു ഇതായിരുന്നു രണ്ടാം ഘട്ടം എന്നാൽ നിങ്ങൾ സംഭാവനകൾ നോക്കുകയാണെങ്കിൽ പ്രാദേശികമായി ലഭ്യമല്ലാത്ത സാമഗ്രികൾ റെഡ് ക്രോസ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ മുഴുവൻ പ്രക്രിയയും ഓർഗനൈസ് ചെയ്യാനും സാങ്കേതിക പിന്തുണ നൽകാനും നിരീക്ഷണം നടത്താനും ചില തരത്തിലുള്ള വർക്ക്ഷോപ്പുകളും അവർ നൽകിയിട്ടുണ്ട്കമ്മ്യൂണിറ്റികൾക്കുള്ള സാങ്കേതിക പിന്തുണയും ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു മാസ്റ്റർ ബിൽഡറിനെയും നൽകേണ്ടതുണ്ട് അങ്ങനെഓരോ കമ്മ്യൂണിറ്റിക്കും ഒരു മാസ്റ്റർ ബിൽഡറെ നൽകി ഓരോ 20 വീടുകൾക്കും ഒരു ഇഷ്ടികപ്പണിക്കാരൻ 11 സോഷ്യൽ പ്രൊമോട്ടർമാർ എന്നിങ്ങനെ മൊത്തം 582 അങ്ങനെ കുടുംബത്തിൽ നിന്ന് അവർ ചരൽ മണൽ തുടങ്ങിയ സാമഗ്രികളും വാതിലുകളും ജനലുകളും നൽകിയിട്ടുണ്ട് കൂടാതെ തോഴിലാളികളെയും അവർക്ക് പിന്നീട് പരിശീലനം നൽകി മൂന്നാമത്തെ ഘട്ടത്തിൽ സർവീസസ് പൂർത്തീകരിക്കുന്നു പിന്നെ ജലവിതരണം ശുചിത്വം അതിനാൽ അവർ ഇവിടെ രണ്ട് ടാപ്പുകളുള്ള ഒരു സിങ്ക് സ്ഥാപിച്ചു ഗ്രെ വാട്ടർ നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനം ഓരോ വീടുകളിലും വിസർജ്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനം കൂടാതെ സമൂഹത്തിനായിപരിശീലനം കൊടുക്കാനുംആശയവിനിമയങ്ങൾ മെച്ചപ്പെടുത്താനും ചില വർക്ക്ഷോപ്പുകളും നടത്തുന്നു ഇവയെ എങ്ങനെ തിരിച്ചറിയണം എന്നതാണ് സമൂഹത്തിന്റെ ആവശ്യം കാരണംഇവിടെയാണ് പാർട്ടിസിപ്പേറ്ററി ഡയഗ്നോസിസ് നടപ്പിലാക്കിയത്കമ്മ്യൂണിറ്റി എന്തായിരുന്നു എന്നും ആവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെ എന്നും ഇപ്പോഴത്തെ സ്ഥിതി അനലൈസ് ചെയ്യുന്നത് എങ്ങനെ എന്നും കമ്മ്യൂണിറ്റി യോട് വിശദീകരിക്കാൻ ആണ് ഇത് അതിനാൽ ഒരു കമ്മ്യൂണിറ്റിയുടെ വിവരണാത്മക മോഹമാണ് ഇത് യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സാധ്യതകളെയും കുറിച്ച് നല്ല ഒരു ധാരണ നൽകാൻ ഇതിന് കഴിഞ്ഞു ഈ നിർമ്മാണത്തിന് ശേഷവും ആളുകൾ ചില പരിശീലന പ്രക്രിയകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് കാരണം ഈ സേവന വശങ്ങൾ എങ്ങനെ പരിപാലിക്കണം ഗ്രേ വാട്ടർ ടേക്ക് ഓഫ് അല്ലെങ്കിൽ ജലവിതരണ ആസ്പെക്ട് ശുചിത്വ ആസ്പെക്ട് അല്ലെങ്കിൽ മാലിന്യ നിർമാർജനം എന്നിവ എങ്ങനെ പരിപാലിക്കണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ വീടിന്റെ പരിസരം ശുചിയാക്കുന്നതിനും ഉപരിതലത്തിൽ ഒഴുകുന്ന വെള്ളം നീക്കം ചെയ്യുന്നതിനുംവീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമുള്ള പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് പ്രകൃതിദത്ത ബാരിയറുകൾ നിർമ്മിക്കുക ചരിവുകൾ സംരക്ഷിക്കുക മരങ്ങൾ നട്ടുപിടിപ്പിക്കുക വീട് വിപുലീകരിക്കുക ഇതിനൊക്കെ വേണ്ടി സമൂഹവുമായി ഒരുതരം ബോധവൽക്കരണം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിന്റെ കൂടെ സ്കൂളുകൾ പോലെ ധാരാളം പബ്ലിക് പ്രൊജക്ടുകളും ഉണ്ടായിട്ടുണ്ട് ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ളവർക്കായി സ്കൂൾ ഓഫ് ഹോഗാർ ഡെൽ നിനോ എന്ന സ്കൂൾ ഒരു വീട്ടിൽ നിർമ്മിച്ചു കൂടാതെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ 6 വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കൂടി നിർമ്മിച്ചു ടൈംലൈൻ നോക്കുമ്പോൾഏകദേശം 500 ഉണ്ട് മെയ് 2001 മുതൽ ഉള്ള റിസൾട്ടുകൾ എന്തൊക്കെയാണ് അത് പ്രോജക്റ്റ് ഡോക്യുമെന്റിന്റെ പ്ലാനിങ്ങിനെയും ഡ്രാഫ്റ്റിങ്ങിനെയും കുറിച്ച് ആണ് അതിനാൽ ഇത് ആവശ്യങ്ങൾ വിശകലനം ചെയ്യുന്നതും വിവിധ ഏജൻസികളുടെ സഹകരണവും സംയോജനവുമാണ് ഇത് എങ്ങനെ മുന്നോട്ട് പോകും പിന്നെ ഏകദേശം ഓഗസ്റ്റിൽ പൈലറ്റ് ഹൌസിന്റെ നിർമ്മാണം പൂർത്തിയായി സെപ്തംബർ ഒക്ടോബർ മുതൽ സോഷ്യൽ പ്രൊമോട്ടർമാരെ നിയമിക്കുകയും ടെൻഡർ രേഖകൾ ഇഷ്യൂ ചെയ്യുകയും വിജയകരമായ നിർമ്മാണ കമ്പനികൾക്ക് നൽകുകയും ചെയ്യുന്നുനിർമ്മാണ ആസ്പെക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെയാണ്നമ്മൾ ചർച്ച ചെയ്ത പൂർത്തിയാകാത്ത സ്ട്രക്ച്ചർ അതായത് ബേസിക് സ്കെൽട്ടൺ ഉള്ള ഒന്നാം ഘട്ടത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്പിന്നെ കമ്മ്യൂണിറ്റികൾ മുന്നോട്ട് വരികയും അവർ കുറച്ച് മെറ്റീരിയലുകൾനൽകുകയും ചെയ്ത രണ്ടാം ഘട്ടത്തെ കുറിച്ചും നമ്മൾ ഇവിടെ സംസാരിച്ചു ചില സാമഗ്രികൾ വാങ്ങുന്നതിനായി അവർ ഒരുമിച്ച് കുറച്ച് ഫണ്ട് സ്വരൂപിക്കുന്നു ഇവിടെയാണ് രണ്ടാം ഘട്ടം സംഭവിച്ചത് അവസാനത്തെ ഘട്ടത്തിൽ അവർ സേവന അടിസ്ഥാന സൌകര്യങ്ങളും പരിശോധിച്ചു അതിനാൽ ഇപ്പോൾ എന്താണ് റിസൾട്ട് നിരന്തരമായ കമ്മ്യൂണിറ്റി ഇടപെടലുകളും പാർട്ടിസിപേറ്ററി ശിൽപശാലകളും അവിടെ ഉണ്ടാകുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ എല്ലാ ദിവസവും രാവിലെ കമ്മ്യൂണിറ്റി ടീം ഒത്തുചേരുകയും അവരുടെ ഭവന പദ്ധതിയുടെ വിവിധ വശങ്ങൾ പഠിക്കുകയും അത് എങ്ങനെ മുന്നോട്ട് പോകാമെന്നും പഠിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പഠിക്കുക എന്ന മുദ്രാവാക്യത്തിലാണ് അവർ പ്രവർത്തിച്ചത് ഇവിടെ പ്രധാനം ഉപയോക്താക്കൾ തന്നെ അവരുടെ റിക്കവറി പ്രക്രിയയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നതാണ് കൂടാതെ ഈ പുരോഗമന ഭവനത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ജനസംഖ്യയുടെ 97 കവർ ചെയ്യപ്പെട്ടു പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ജീവിതനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്തു അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതിനാൽ സോഷ്യൽ നെറ്റ്വർക്കുകൾ ശക്തിപ്പെടുത്തുന്നു സ്ത്രീ പങ്കാളിത്തത്തിന്റെ സാംസ്കാരിക സ്റ്റീരിയോടൈപ്പുകൾ തകർക്കുന്നു കാരണം സ്ത്രീ ഒരു പ്രധാന സ്വത്താണ് നിർമ്മാണത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ റിക്കവറി പരിപാടിയുടെ ഭാഗമാകാൻ ആളുകൾ മുന്നോട്ട് വന്നു എൽ സാൽവഡോർ റെഡ് ക്രോസ് ലോക്കൽ റെഡ് ക്രോസായി ആക്റ്റീവ് ആയി പങ്കെടുത്തു കൂടാതെ അഞ്ച് വർഷത്തിന് ശേഷവും അവർക്ക് എങ്ങനെ അവരുടെ പൂന്തോട്ടങ്ങൾവീടിന്റെ തുണിത്തരങ്ങൾ എന്നിവ നിലനിർത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ നിങ്ങൾക്കറിയാമോ ഓരോ പദ്ധതിക്കും അതിന്റെ തകർച്ചയും രണ്ടാം ഘട്ടത്തിൽ സാമ്പത്തികം കണ്ടെത്താനുള്ള കമ്മ്യൂണിറ്റികൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകും കാരണം മെറ്റീരിയലുകൾ സംഭരിക്കാൻ ചില ആളുകൾക്ക് സാധിക്കും ചിലർക്ക് സാധിക്കില്ല അപ്പോൾ പിന്നീട് അവർ എവിടെയെങ്കിലും ഒരുമിച്ചു കൂടി കുറച്ച് ഫണ്ട് ശേഖരിക്കുന്നു അത് പ്രോജക്റ്റിന്റെ നിർദ്ദിഷ്ട സമയപരിധിയിലും സ്വാധീനം ചെലുത്തുന്നുണ്ടോ മറ്റൊരു കാര്യം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും അത് കുറച്ച് സമയമെടുത്തു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സജീവ പങ്കാളിത്തം ഒരു പ്രായോഗിക ആൾട്ടർനേറ്റീവ് ആണെന്ന് പഠനം നിഗമനം ചെയ്യുന്നു കാരണംപല കേസുകളിലും ഇത് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ് ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് പാർട്ടിസിപ്പേഷൻ ആണ് കുടുംബങ്ങൾക്ക് അവരുടെ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ കഴിയും അവർ ഒരു വലിയ സംഭാവന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അവർ സ്വയം സംഘടിക്കുകയാണ് കൂടാതെ രാജ്യം സംസ്കാരം അതിന്റെ ജീവിതം എന്നിവയെക്കുറിച്ചുള്ള വിപുലമായ അറിവ് പരമപ്രധാനമാണ് അതിനാൽ ഒരാൾ പ്രാദേശിക സമൂഹങ്ങളുമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ട്രസ്റ്റ് വികസിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ ഒരു ഭാഗം മാത്രമേ വികസിപ്പിച്ചെടുത്തിട്ടുള്ളൂ ശേഷിക്കുന്ന ഭാഗത്ത് ഉപയോക്താക്കൾ വികസിപ്പിച്ചെടുത്തു പദ്ധതി നടപ്പിലാക്കാൻ എടുക്കുന്ന സമയം എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം അവിടെ ചില നിയന്ത്രണങ്ങൾ ഉണ്ട് കുടുംബങ്ങൾക്ക് എങ്ങനെ വളരെ അമേച്വർ തലത്തിലുള്ള മേൽനോട്ടം ഉണ്ടാവും നിങ്ങൾക്കറിയാമോ അതും അവർ കെട്ടിട പശ്ചാത്തലത്തിൽ നിന്ന് കെട്ടിപ്പടുക്കാത്തതുകൊണ്ടാണ് സാമൂഹിക പ്രമോട്ടർമാരുടെ പങ്ക് നിർണായക പ്രാധാന്യമുള്ളതായിരുന്നു കാരണം അവർ സമൂഹത്തിനും റെഡ് ക്രോസിനും ഇടയിൽ ഒരു വിശ്വാസം വളർത്തിയെടുത്തു സാമൂഹികമായും സാങ്കേതികമായും പ്രാദേശിക ആളുകളെ പരിശീലിപ്പിക്കുന്നു അത് അവർക്ക് ചില തരത്തിൽ ഉള്ള തൊഴിൽ സാധ്യത നൽകുന്നു അവർക്ക് ഒരു മേസൺ ആയി ജോലി ചെയ്യാൻ കഴിയും അവർക്ക് ഒരു വിദഗ്ദ്ധ വ്യക്തിയായി പ്രവർത്തിക്കാൻ കഴിയും എൽ സാൽവഡോർ കേസിൽനിന്നുള്ള ചില ധാരണകളാണിവകോൾഡ് കോർ ബിൽഡിംഗ് സമീപനത്തിൽ നിന്ന് പ്രോഗ്രസ്സീവ് ഹൌസിങ് സമീപനത്തിലേക്ക് അത് എങ്ങനെ അൽപ്പം മാറ്റപ്പെട്ടുന്നു അതിന്റെ പ്രക്രിയയിൽ കമ്മ്യൂണിറ്റികൾ എങ്ങനെ ഉൾപ്പെടുന്നു ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി